പേറ്റന്റ് റൈറ്റ്സിൻറെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപടികളിലൂടെ മുന്നോട്ടുപോകേണ്ടതുണ്ട് ഒരു വ്യക്തി പേറ്റന്റിനുള്ള അപേക്ഷ പേറ്റന്റ് ഓഫീസിൽ സമർപ്പിക്കുന്നതിലൂടെയാണ് രജിസ്ട്രേഷൻ നടപടികൾക്ക് ആരംഭം ആകുന്നത് പേറ്റൻറ് ഓഫീസ് ഈ അപേക്ഷയിന്മേൽ ചില സൂക്ഷ്മ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം പേറ്റൻറ് അനുവദിക്കുന്നു ഔദ്യോഗികമായ പേറ്റൻറ് അപേക്ഷയിന്മേൽ ആവശ്യമായ സൂക്ഷ്മ പരിശോധനകൾ പൂർത്തിയാക്കി പേറ്റൻറ് അനുവദിക്കുന്ന നടപടിക്രമങ്ങൾക്കാണ് പേറ്റൻറ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കൽ പേറ്റന്റ് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് എൻഫോഴ്സ്മെന്റ് അഥവാ നടപ്പിലാക്കൽ അത് ചെയ്യുന്നത് പേറ്റന്റ് റൈറ്റ് ഹോൾഡറാണ് അതായത് തനിക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന ഈ അവകാശത്തിന്മേൽ മറ്റാരും കടന്നു കയറുന്നില്ല അവകാശലംഘനം സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്താൻ അദ്ദേഹം സ്വീകരിക്കുന്ന മാർഗങ്ങൾ ആണ് അവകാശ ലംഘനത്തെ നമ്മൾ ഇൻഫ്രിൻജ്മെൻറ് എന്ന് പറയും നടപ്പാക്കൽ നടപടികളുടെ ഭാഗങ്ങൾ സംഭവിക്കുന്നത് കോടതി മുൻപാകെ ആണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസിൻറെയോ പേറ്റന്റ് ഓഫീസിൻറെയോ ദൌത്യം എന്ന് പറയുന്നത് ലഭിച്ചിരിക്കുന്ന പേറ്റന്റ് അപേക്ഷയിന്മേൽ ആവശ്യമായ സൂക്ഷ്മ പരിശോധനകൾ പൂർത്തിയാക്കി പേറ്റന്റ് അനുവദിക്കുക എന്നതാണ് എന്നാൽ അതിൻറെ എൻഫോഴ്സ്മെന്റ് പാർട്ട് നടപ്പിലാക്കുന്ന ഭാഗം നിർവഹിക്കുന്നത് കോടതികളും നിയമവ്യവസ്ഥയും ആണ് അതിനാൽ അവകാശത്തിന്മേൽ എന്തെങ്കിലും നിയമലംഘനം സംഭവിക്കുകയാണെങ്കിൽ അവകാശി കോടതി മുൻപാകെ ഇൻഫ്രിൻജ്മെൻറ് കേസ് ഫയൽ ചെയ്യണം ഇനി നമ്മൾ കാണുന്നത് പേറ്റന്റ്സിൻറെ അടിസ്ഥാന തത്വങ്ങളാണ് പേറ്റന്റ് എക്സ്ക്ലൂസിവ് ആയിട്ടുള്ള കുത്തക അവകാശം നൽകുന്നു നൽകുന്നത് ഗവൺമെന്റാണ് അതിന് കാലാവധി എന്ന് പറയുന്നത് അപേക്ഷ നൽകിയ ദിവസം മുതൽ 20 വർഷത്തേക്കാണ് വിൽക്കാനുള്ള അവകാശം വിൽപ്പനയ്ക്ക് വയ്ക്കാനുള്ള അവകാശം ഇറക്കുമതി ചെയ്യാനുള്ള അവകാശം ഇവയാണ് എക്സ്ക്ലൂസിവ് റൈറ്റ്സിൽ വരുന്ന അവകാശങ്ങൾ എക്സ്ക്ലൂസിവ് റൈറ്റ് എന്ന് പറയുന്നത് ഈ അവകാശം അനുഭവിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ ഒഴിവാക്കാനുള്ള അവകാശമാണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ പേറ്റന്റ് ചെയ്യപ്പെട്ട നിങ്ങളുടെ കണ്ടുപിടിത്തം ഉണ്ടാക്കുന്നതിൽ നിന്നും വിൽക്കുന്നതിൽ നിന്നും വിൽപ്പനയ്ക്ക് വെക്കുന്നതിൽ നിന്നും അത് ഉപയോഗിക്കുന്നതിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്നും തടയുവാൻ സാധിക്കും പേറ്റന്റ്സ് പ്രാദേശികമാണ് എന്നുവെച്ചാൽ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസ് അനുവദിച്ചു നൽകിയ ഒരു പേറ്റന്റ് ശ്രീലങ്കയിലോ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ മറ്റ് അയൽരാജ്യങ്ങളിലോ നടപ്പിൽ വരുത്തുവാൻ സാധിക്കുകയില്ല പേറ്റന്റ് അനുവദിക്കുന്ന ഓഫീസുകളുടെ അധികാരാതിർത്തി തന്നെയാണ് അത് നടപ്പിൽ വരുത്താനുള്ള പ്രാദേശിക അതിർത്തിയും അതുകൊണ്ട് ഒരു ഇന്ത്യൻ പേറ്റന്റ് ഇന്ത്യയുടെ അതിർത്തികൾക്കുള്ളിൽ മാത്രമേ നടപ്പിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ അവ അനുവദിക്കുന്നത് 20 വർഷ കാലയളവിലേക്കാണ് വിവിധ ആവശ്യങ്ങൾക്കായി പേറ്റന്റ് അനുവദിക്കാറുണ്ട് ഒരു പേറ്റന്റ് അനുവദിക്കുന്നതിൻറെ ലക്ഷ്യം ഒരുപക്ഷേ സാങ്കേതികവിദ്യയുടെ മേഖല മനസിലാക്കുന്നതിനും കൂടുതൽ മുന്നോട്ട് അതിന്മേൽ പ്രവർത്തിക്കുന്നതിനും ആയിരിക്കാം ഒരാൾ ഒരു പക്ഷേ പേറ്റന്റ് അപേക്ഷ സമർപ്പിക്കുന്നത് തൻറെ പ്രവർത്തനമേഖലയിൽ മറ്റൊരാൾ പ്രവർത്തിക്കുന്നത് തടയുന്നതിനായിരിക്കും അപ്പോൾ ആ പ്രത്യേക സാങ്കേതിക മേഖലയിൽ നിന്നും എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചാലും അവയെല്ലാം തന്നെ ഈ പേറ്റന്റ് ഹോൾഡറുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടും പേറ്റന്റുകൾ പലപ്പോഴും ഇൻവെൻന്റർക്ക് പരിമിതമായ കുത്തക നൽകിക്കൊണ്ട് കൂടുതൽ ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്ന ഒരു ഉപകരണം ആയിട്ടാണ് വർത്തിക്കുന്നത് പേറ്റന്റ് വ്യവസ്ഥ ആളുകളെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനും ആ മേഖലയിൽ പണവും സമയവും പരിശ്രമവും ചിലവഴിച്ച് കൂടുതൽ കണ്ടുപിടിത്തങ്ങളിലേക്ക് നയിക്കുന്നതിനുള്ള പ്രചോദനവും പ്രോത്സാഹനവും കൊടുക്കുകയാണ് പേറ്റന്റുകൾ ഇല്ലാത്ത ഒരു ലോകത്ത് പണവും സമയവും നിക്ഷേപിച്ച് പുതിയ കണ്ടുപിടിത്തങ്ങളിലേക്ക് ആളുകളെ നയിക്കുക എന്നത് അത്ര എളുപ്പമല്ല പേറ്റന്റുകൾ ഇല്ലാത്ത ഒരു ലോകത്ത് ഒരാൾ ഒരു പുതിയ കണ്ടുപിടുത്തവുമായി വരികയാണെങ്കിൽ അദ്ദേഹത്തിൻറെ എതിരാളി അത് മോഷ്ടിച്ച് അല്ലെങ്കിൽ അനുമതി കൂടാതെ അത് പകർത്തി കമ്പോളത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് സമയവും പണവും ചെലവഴിച്ച് പുതിയ കണ്ടുപിടിത്തങ്ങൾ നടത്തുന്ന വ്യക്തികളെ പേറ്റന്റുകൾ സംരക്ഷിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ നിയമവ്യവസ്ഥ ഉടലെടുത്തത് ചില അന്താരാഷ്ട്ര കൺവെൻഷനുകൾ വഴിയാണ് പാരിസ് കൺവെൻഷൻ ഡബ്ലിയു ടി ഓ യുടെ ഭാഗമായ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻറെ വ്യാപാര അനുബന്ധ ഘടകങ്ങളും ആയി ബന്ധപ്പെട്ട ട്രിപ്സ് കരാർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇവയും കൂടാതെ വിദേശരാജ്യങ്ങളിൽ പേറ്റന്റുകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം എന്ന നിലയ്ക്ക് ഉടലെടുത്തിട്ടുള്ള പേറ്റന്റ് കോ ഓപ്പറേഷൻ ട്രീറ്റി പി സി ടി ഇവയാണ് ആ കൺവെൻഷനുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഇന്ത്യയിലെ പേറ്റന്റ് ആക്ട് ബ്രിട്ടീഷുകാരുടെ ഇറക്കുമതിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അവർ പേറ്റന്റ് ആക്ട് ഓഫ് 1911 കൊണ്ടുവന്നു അത് പ്രധാനമായും ബ്രിട്ടീഷ് ആക്ട് തന്നെയായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ ഉടനെ ഇന്ത്യ ഇങ്ങനെ ചിന്തിച്ചു അതായത് പേറ്റന്റ് ആക്ട് എന്നത് ഒരു രാജ്യത്തിൻറെ വളർച്ചയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു പേറ്റന്റ് ലോ വേണമെന്ന് സ്വാതന്ത്ര്യാനന്തരം രണ്ട് വിദഗ്ധ കമ്മിറ്റികളാണ് രൂപീകൃതമായത് ടെക് ചന്ത് കമ്മിറ്റിയും അയ്യൻങ്കാർ കമ്മിറ്റിയും കമ്മറ്റിയുടെ ദൌത്യം ഇതായിരുന്നു ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന 1911 ആക്ട് ഇന്ത്യയുടെ പൊതു താത്പര്യത്തിന് യോജിച്ചതാണോ എന്ന് പരിശോധിക്കുക പ്രത്യേകിച്ചും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ലോക വ്യാപാര സാമ്പത്തിക മേഖലയിൽ തൻന്റെതായ ഒരു സ്ഥാനം നിർണയിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ രണ്ടു കമ്മിറ്റികളും ഒരേ അഭിപ്രായമാണ് മുന്നോട്ടുവച്ചത് അതായത് നിലവിലിരിക്കുന്ന ഈ ആക്ട് നമ്മുടെ ഭാരതത്തിൻറെ പ്രാദേശികവും അന്തർദേശീയവുമായ വളർച്ചയ്ക്ക് ഉതകുന്നതല്ല എന്ന് ടെക് ചന്ത് കമ്മിറ്റിയും അതേതുടർന്ന് അയ്യൻങ്കാർ കമ്മിറ്റിയും അന്ന് നിലനിന്നിരുന്ന ആക്ട് പുനപരിശോധിക്കുവാനും നവീകരിക്കാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ടു വച്ചു അങ്ങനെയാണു ഇന്നു നിലനിൽക്കുന്ന 1970 ആക്ട് നിലവിൽ വന്നത് അതിൻറെ രൂപീകരണത്തിന് ഈ രണ്ടു കമ്മിറ്റികളുടെയും നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തുകയുമാണുണ്ടായത് 1970 ലെ ഈ ആക്ട് ആണ് ആദ്യമായി മരുന്നുകൾക്കുള്ള സംരക്ഷണം എടുത്തു നീക്കിയത് അതിനുമുൻപ് 1911 ആക്ട് പ്രകാരം ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഡ്രഗ്സിന് പേറ്റന്റ് സംരക്ഷണം ഉണ്ടായിരുന്നു 1970 ആക്ട് പ്രകാരം ആ സംരക്ഷണം എടുത്തുകളഞ്ഞു 1970 ൽ മറ്റു ചില പ്രബലമായ വ്യതിയാനങ്ങളും പേറ്റന്റ് ആക്ടിൽ കൊണ്ടുവരികയുണ്ടായി പേറ്റന്റിൻറെ കാലാവധി 14 വർഷം ആയിരുന്നു അതും ഭക്ഷണപദാർത്ഥങ്ങൾക്കും മരുന്നുകൾക്കും അതിനേക്കാൾ കുറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അഞ്ചു വർഷത്തിനും 7 വർഷത്തിനും ഇടയിൽ വ്യത്യാസപ്പെട്ടിരുന്നു 1970 ആക്ട് തന്നെയാണ് കംമ്പൽസറി ലൈസൻസിംഗും അതിനോട് അനുബന്ധമായ മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നത് 1995 ൽ ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അംഗമായതിനുശേഷം 1970 ആക്ട് മൂന്നുതവണ അതായത് 1999ലും 2002ലും 2005ലും ഭേദഗതി വരുത്തുകയുണ്ടായിട്ടുണ്ട് ഡബ്ലിയു ടി ഓ യുടെ ട്രിപ്സ് കരാർ അനുസരിക്കുന്നതിനുവേണ്ടിയുള്ള ഭേദഗതികളാണ് അവയെല്ലാം ട്രിപ്സ് കരാർ ഒരു അന്താരാഷ്ട്ര കരാർ ആയതിനാൽ അത് വളരെയേറെ കാര്യങ്ങളിൽ പൊതുവായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ട്രിപ്പ്സ് കരാർ ഉണ്ടായത് എട്ടു വർഷത്തോളം നീണ്ടുനിന്ന അംഗരാജ്യങ്ങൾ തമ്മിലുള്ള കൂടിയാലോചനകൾക്കൊടുവിലാണ് ഒരു പേറ്റന്റിൻറെ കാലാവധി ഇരുപതുവർഷം ആയിരിക്കണമെന്ന പൊതുമാനദണ്ഡം കൊണ്ടുവന്നത് ഈ കരാറാണ് അതിനു മുൻപ് ഇന്ത്യയിൽ അത് പൊതുവായ കണ്ടുപിടിത്തങ്ങൾക്ക് 14 വർഷവും ഭക്ഷണം മരുന്ന് ഈ മേഖലകളിലുള്ള കണ്ടുപിടിത്തങ്ങൾക്ക് അതിനേക്കാൾ കുറഞ്ഞ വർഷങ്ങളും ആയിരുന്നു ഇപ്പോൾ അതിനു മാറ്റം വന്നിരിക്കുന്നു ഇതുകൂടാതെ ഇന്ത്യൻ പേറ്റന്റ് മരുന്നുകളുടെയും ഭക്ഷണത്തിൻറെയും മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പേറ്റന്റ് അനുമതി നൽകുന്നില്ല എന്നതും മാറ്റേണ്ടിവന്നു അങ്ങനെ ഇന്ത്യൻ പേറ്റന്റ് വ്യവസ്ഥ 1999 ലും 2002 ലും 2005ലും ഭേതഗതികൾക്ക് വിധേയമായി ഈ മൂന്നു ഭേദഗതികൾ ഇന്ത്യൻ പേറ്റന്റ് നിയമവ്യവസ്ഥയെ ട്രിപ്സ് ഉടമ്പടി യോട് പൂർണമായും അനുരൂപപ്പെടുത്തി ആക്ട് ഭേദഗതി ചെയ്തതിനുശേഷം ഉടനെതന്നെ നിയമങ്ങളും ഭേദഗതി ചെയ്തു നിയമം ആക്ടിന് താഴെയാണ് നിയമങ്ങളെ നമ്മൾ ഡലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് വിളിക്കുന്നു കേന്ദ്ര ഭരണകൂടത്തിന് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ ആക്ട് ആക്ടാകണമെങ്കിൽ പാർലമെൻറിൻറെ ഇരുസഭകളിലും അത് പാസ്സാകണം പുതിയ നിയമങ്ങൾ രൂപപ്പെടുത്തിയ 2003 ൽ ഗണ്യമായ ഒരു വ്യതിയാനം ഉണ്ടായി ഈ നിയമങ്ങൾ 2005ലും 2006ലും 2013ലും 2014ലും ഏറ്റവും അവസാനം 2016 ലും ഭേദഗതി ചെയ്യപ്പെട്ടു 2005 ലെ ഭേദഗതി പ്രകാരം സാങ്കേതിക വ്യതിയാനം പരിഗണിക്കാതെ തന്നെ ഉൽപ്പന്നങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും പേറ്റന്റ് നൽകാൻ തുടങ്ങി അതിനുമുൻപ് നമ്മൾ മരുന്നു നിർമ്മാണ മേഖലയിലും ഭക്ഷണ നിർമ്മാണ മേഖലയിലും ഉള്ള ഉൽപന്നങ്ങൾക്ക് പേറ്റന്റ് നൽകിയിരുന്നില്ല ഇപ്പോൾ അതിന് വ്യത്യാസം വന്നു ഇന്ത്യൻ പേറ്റന്റ് ആക്ട് പ്രകാരം നൽകാവുന്ന രണ്ട് വ്യത്യസ്തമായ പേറ്റന്റുകൾ എന്നു പറയുന്നത് ഒന്ന് ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന പേറ്റന്റ് രണ്ട് നടപടിക്രമങ്ങൾക്ക് നൽകുന്ന പേറ്റന്റ് പേറ്റന്റ് സ്പെസിഫിക്കേഷനിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഡിസ്ക്രിപ്ഷനും ക്ലെയിംസും ആണ് ക്ലെയിംസും കൂടെ ഉൾക്കൊള്ളുന്ന പേറ്റന്റിൻറെ വിവരണാത്മക ഭാഗത്തെയാണ് നമ്മൾ പേറ്റന്റ് സ്പെസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത് ഡിസ്ക്രിപ്ഷന് തന്നെ വളരെയേറെ വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് അതിനൊരു തലക്കെട്ട് ഉണ്ടായിരിക്കും ഒരു പശ്ചാത്തല വിവരണം ഉണ്ടായിരിക്കും ഒരു സംഗ്രഹം ഉണ്ടായിരിക്കും വിശദമായ ഒരു വിവരണം ഉണ്ടായിരിക്കും ഒരു സംക്ഷിപ്ത വിവരണം ഉണ്ടായിരിക്കും ചിലപ്പോൾ ചില ചിത്രങ്ങളും ഉണ്ടായിരിക്കും ഇത്രയുമാണ് ഒരു ഡിസ്ക്രിപ്ഷൻറെ വിവിധ ഭാഗങ്ങൾ തലക്കെട്ട് ഉണ്ടായിരിക്കുക എന്നത് ഒരു നിയമപരമായ ആവശ്യമാണ് പശ്ചാത്തല വിവരണവും ചുരുക്ക വിവരണവും ഡിസ്ക്രിപ്ഷൻറെ വിവിധ ഭാഗങ്ങളാണ് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് ആരെയാണ് പേറ്റന്റ് അഭിസംബോധന ചെയ്യുന്നത് ഒരു പേറ്റന്റ് വിവിധതരം ആളുകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് 2007ൽ ഞാൻ എൻറെ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പോൾ ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പേറ്റന്റ് സ്പെസിഫിക്കേഷൻ എന്നത് വളരെ കൌതുകമുണർത്തുന്ന ഒരു പ്രമാണമാണ് പേറ്റന്റ് ഏജൻറ്സ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം വിദഗ്ധരായ ആളുകൾ ആണ് അത് എഴുതുന്നത് അതിലുള്ളടങ്ങിയിരിക്കുന്നത് ഇൻവെൻന്റേഴ്സ് അതായത് ഭാവാത്മകമായ അഥവാ സൃഷ്ടിപരമായ കഴിവുകൾ ഉള്ള ആളുകളുടെ ഒരു കൂട്ടം അവകാശങ്ങളാണ് അത് അഭിസംബോധന ചെയ്യുന്നത് സിദ്ധികൾ ഉണ്ട് എന്ന് ഊഹിക്കുന്നു ഒരു കൂട്ടം ആളുകളെയാണ് ഈ ആളുകൾ കലാ നൈപുണ്യം ഉള്ളവരാകാം നിയമ പരിശീലനം ലഭിച്ചവരാകാം ജഡ്ജസ് ആകാം എക്സാമിനേഴ്സ് ആകാം അപ്പോൾ പേറ്റന്റ് സ്പെസിഫിക്കേഷനിൽ അഭിസംബോധന ചെയ്യുന്നത് ഒരു പ്രത്യേക കൂട്ടം ആളുകളെ മാത്രമല്ല അതിനോടുകൂടി അതുപോലുള്ള മറ്റനേകം കൂട്ടങ്ങളെ നമുക്ക് ചേർക്കാം ഒരുപക്ഷേ പേറ്റന്റോടികൂടിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകാം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിക്ക് വില നിർണയിക്കുന്ന കൺസൾട്ടൻസ് ഉണ്ടാകാം ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടിക്ക് ലോൺ അനുവദിക്കുന്നതിനു മുൻപോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി മായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങാൻ നിക്ഷേപം നടത്തുന്നതിന് മുൻപോ പ്രോപ്പർട്ടികൾക്ക് ഊഹ വിലയിടുന്ന സാമ്പത്തിക വിദഗ്ധരായ മനുഷ്യൻ ഉണ്ടാകാം ഈ വിധത്തിൽ പേറ്റന്റ് സ്പെസിഫിക്കേഷനിൽ താല്പര്യമുള്ള വളരെയധികം തരത്തിൽപ്പെട്ട മനുഷ്യർ ഉണ്ടാകാം എന്നാൽ സാങ്കേതികമായി പേറ്റന്റ് സ്പെസിഫിക്കേഷൻ അഭിസംബോധന ചെയ്യുന്നത് കലാ സിദ്ധികളുള്ള വ്യക്തികളെയാണ് ഈ കലാ സിദ്ധികളുള്ള വ്യക്തി എന്ന് പറയുന്നത് ചില വേളകളിൽ ഒരു കൂട്ടം ആളുകൾ ആകാം ഈ കൂട്ടമാളുകൾ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാകാം ഈ ആളുകൾ വ്യത്യാസപ്പെട്ട സിദ്ധികളുള്ളവരാകാം പേറ്റന്റ് സ്പെസിഫിക്കേഷൻ വ്യാഖ്യാനിക്കേണ്ട ആവശ്യത്തിനായി ഇവരെ ഒന്നിച്ചുകൂട്ടിയതാകാം ഇതൊരു ഊഹിത നിർമാണമാണ് കാരണം ഒരു കണ്ടുപിടിത്തം ഒരുപക്ഷേ മൂന്ന് സാങ്കേതിക മേഖലകളെ ഒന്നിപ്പിച്ചു കൊണ്ടുള്ളതാണെങ്കിൽ ഹൈപ്പൊത്തെറ്റിക്കലി നമുക്ക് ആളുകളെ ഒന്നിച്ചു കൂട്ടേണ്ടിവരും കണ്ടുപിടിത്തത്തിൽ മൂന്ന് വിവിധങ്ങളായ സാങ്കേതിക മേഖലകളെ ഒന്നിപ്പിച്ച വിദഗ്ധരെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടിവരും ഈയൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് പേറ്റന്റ് നിർമ്മിക്കുന്നത് ഇവിടെ ഈ സ്ക്രീൻ ഷോട്ടിൽ നിങ്ങൾ കാണുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് പേറ്റന്റ് ഓഫീസിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു പേറ്റന്റ് അപേക്ഷയാണ് നമ്മൾ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് പ്രസിദ്ധം ചെയ്തിട്ടുള്ള അപേക്ഷകളാണ് ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് പേറ്റന്റ് ഓഫീസ് പ്രസിദ്ധം ചെയ്തിട്ടുള്ള പേറ്റന്റ് അപേക്ഷകൾ വളരെ വിശദീകരണം ഉള്ളതാണ് സ്പെസിഫിക്കേഷൻറെ വിവിധ ഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ് ഇതിനെ തുടർന്ന് നമ്മൾ ഇന്ത്യയുടെ പേറ്റന്റിനുള്ള അപേക്ഷയും കാണിച്ചു തരുന്നതാണ് അത് വഴി ഏറെക്കുറെ ഇതെല്ലാം ഒരു പോലെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ യുഎസ് പേറ്റന്റ് അപേക്ഷയുടെ ഘടന മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളതും എല്ലാ വിശദാംശങ്ങളും ഒരൊറ്റ സ്ഥലത്ത് ലഭിക്കുന്നതുമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളതിൻറെ തൊട്ടടുത്ത് 19 12 എന്നീ നമ്പറുകൾ നിങ്ങൾ കാണും അതിനുശേഷം 10 പിന്നെ 43 5476 എല്ലാം ബ്രാക്കറ്റിൽ ആണ് നിങ്ങൾ കാണുക ഇത് പേറ്റന്റ് ഓഫീസേഴ്സ് ഏത് ഓഫീസിലാണ് പേറ്റന്റ് അനുവദിച്ചത് എന്ന കാര്യം പരിഗണിക്കാതെ തന്നെ ആഗോളമായി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് അഥവാ അടയാളങ്ങളാണ് കോഡ് നമ്പർ 76 എന്നു പറയുന്നത് ഇൻവെൻന്ററുടെ പേരിനെ അടയാളപ്പെടുത്തുന്നു കോഡ് നമ്പർ 22 അപേക്ഷ ഫയൽ ചെയ്ത തീയതി ആണ് അടയാളപ്പെടുത്തുന്നത് കോഡ് നമ്പർ 67 അടയാളപ്പെടുത്തുന്നത് അബ്സ്ട്രാക്റ്റ് ആണ് സംഗ്രഹം ഈ കോഡുകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് പേറ്റന്റ് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷയെ പരിഗണിക്കാതെ തന്നെ ഇവ മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഒരു ജപ്പാൻ പേറ്റന്റ് ജാപ്പനീസ് ഭാഷയിൽ ആയിരിക്കും എഴുതുക ഒരു ചൈനീസ് പേറ്റന്റ് ചൈനീസ് ഭാഷയിൽ ആയിരിക്കും എഴുതുക യൂറോപ്യൻ പേറ്റന്റ് ഒരുപക്ഷേ ഫ്രഞ്ചിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും പേറ്റന്റുകൾ വിവിധ ഭാഷകളിൽ എഴുതപ്പെടുന്നു എങ്കിലും അതിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഈ ആഗോള കോഡുകൾ വിദേശ ഭാഷകളിൽ എഴുതപ്പെട്ടതെങ്കിലും അവയെ മനസ്സിലാക്കുന്നതിനും ഏറ്റവും ചുരുങ്ങിയത് ആ കോഡിനു നേർക്ക് എന്ത് വിവരം ആണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നു എന്നുവച്ചാൽ കോഡ് നമ്പർ 13 നമ്മൾ കാണുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് പേറ്റന്റ് ഫയൽ ചെയ്ത തീയതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല രാജ്യങ്ങളിൽ ഉള്ള പല പേറ്റന്റ് ഓഫീസേഴ്സ് പേറ്റന്റ് സ്പെസിഫിക്കേഷനിൽ യൂണിവേഴ്സൽ കോഡുകൾ ഉപയോഗിക്കുന്നു എന്നാൽ അവ ഒരേ വിവരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു ഇതിനെ ബിബ്ലിയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് എന്ന് നമ്മൾ വിളിക്കുന്നു പേറ്റന്റുകളുടെ ബിബ്ലിയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് എന്നുപറഞ്ഞാൽ അത് ഇൻവെൻന്ററുടെ പേര് അപേക്ഷയുടെ നമ്പർ അപേക്ഷിച്ച് തീയതി അതിൻറെ ക്ലാസിഫിക്കേഷൻ തലക്കെട്ട് അത് അപേക്ഷിച്ച പേറ്റന്റ് ഓഫീസ് എന്നിവ അടങ്ങുന്നതാണ് കൂടാതെ അതിൻറെ ഭരണപരമായ കാര്യനിർവ്വഹണത്തിന് വേണ്ടി ബാർ കോഡും നൽകിയിരിക്കും യുഎസ് പേറ്റൻറ് ഓഫീസ് ബാർകോഡ് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നത് അബ്സ്ട്രാക്ട് ആണ് സംഗ്രഹം ഫോം നമ്പർ രണ്ടിൽ ഇന്ത്യൻ ഫോമിൽ കയ്യൊപ്പും തീയതിയും അവസാനം ആണ് വരുന്നത് എന്നാൽ ഇവിടെ അത് വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് യു എസ് ഫോമിൽ അത് ഏറ്റവും മുൻപിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സംഗ്രഹം എന്നു പറയുന്നത് ഒരു ചുരുക്ക വിവരണമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ഒരു എഴുത്തുപകരണം ആണ് ഉപയോഗിക്കുന്ന ആൾക്ക് എഴുതിയതിൽ തിരുത്തൽ വരുത്തുവാനും കൂടി സാധിക്കുന്ന ഒരു കോമ്പിനേഷൻ പേനയെ കുറിച്ചാണ് ആണ് ഈ പേറ്റന്റിൽ വിവരിച്ചിരിക്കുന്നത് എന്താണ് അബ്സ്ട്രാക്റ്റ് എന്ന് വിവരിക്കുന്നുണ്ട് നമ്മൾ കണ്ട ഈ അബ്സ്ട്രാക്റ്റിന് ഒരു പ്രത്യേക ദൌത്യം ഉണ്ട് റൂൾ നമ്പർ 13 ആണ് നമ്മൾ കാണുന്നത് റൂൾ നമ്പർ 13 ഉപ നമ്പർ 7 7 എന്നിവിടങ്ങളിൽ അബ്സ്ട്രാക്റ്റിൻറെ ദൌത്യങ്ങൾ നമ്മൾ കണ്ടു ലോകമെമ്പാടും അബ്സ്ട്രാക്റ്റ് ഒരേ ദൌത്യം ആണ് നിർവഹിക്കുന്നത് അത് കണ്ടുപിടുത്തത്തെ വിവരിക്കുന്നു അതൊരു ചുരുക്ക വിവരണമാണ് ഏത് സാങ്കേതിക മേഖലയോടാണ് ഈ കണ്ടുപിടിത്തം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും പറയുന്നു സാങ്കേതികമായി ഉണ്ടായ അഭിവൃദ്ധിയെ കുറിച്ചും ഈ കണ്ടുപിടുത്തം കൊണ്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഉപയോഗത്തെക്കുറിച്ചും അതൊരു രാസപദാർത്ഥം ആണെങ്കിൽ അതിൻറെ രാസ ഫോർമുലയും അബ്സ്ട്രാക്റ്റ് വിവരിക്കുന്നു അപ്പോൾ ഇതാണ് അബ്സ്ട്രാക്റ്റ് ഇനി എന്തൊക്കെയാണ് പേറ്റന്റ് സ്പെസിഫിക്കേഷനിൽ ഉള്ളതെന്ന് നമുക്ക് കാണാം മിക്കവാറും എല്ലാ സാങ്കേതിക ഉപകരണങ്ങൾക്കും നിങ്ങളൊരു ചിത്രം കാണാറുണ്ട് ഇതാ ഇവിടെ ഒരു ചിത്രം ഇത് ആദ്യത്തെ ചിത്രമാണ് ഇനി നിങ്ങൾ രണ്ടാമതൊരു ചിത്രം കാണും എല്ലാ ചിത്രങ്ങളും ക്രോസ് റഫറൻസ് ചെയ്തിട്ടുണ്ടാകും അതായത് പരസ്പരം പരാമർശിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പേറ്റന്റിലേക്ക് വന്നിരിക്കുന്നു അതിൻറെ എഴുതപ്പെട്ട ഭാഗത്തേക്ക് അവിടെ നിങ്ങൾ കോമ്പിനേഷൻ പെൻ വിത്ത് കറക്ഷൻ മാർക്കറർ എന്ന ഒരു തലക്കെട്ട് കാണും US 20120093562A1 എന്ന ഒരു നമ്പർ നിങ്ങൾക്ക് കാണാം ഈ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ അന്വേഷിക്കാൻ സാധിക്കും www compatents എന്നതാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഗൂഗിൾ നമുക്ക് തരുന്ന പേറ്റന്റ് ഡാറ്റാബേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് യു എസ് പേറ്റന്റ് ഓഫീസിൻറെ വെബ്സൈറ്റിൽ പോയി ഈ നമ്പർ അടിച്ചു കൊടുത്തു അതു അന്വേഷിക്കാം അപ്പോൾ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്ന ഡോക്യുമെൻറ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേറ്റന്റ് അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ www google compatents സൈറ്റിൽ പോയി അവിടെ കണ്ടുപിടിത്തത്തിൻറെ പേരോ അല്ലെങ്കിൽ ക്ലെയിമോ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും സർച്ച് ചെയ്യുവാൻ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഉണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ഡോക്യുമെൻറ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും സ്പെസിഫിക്കേഷൻറെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ ആണ് സ്പെസിഫിക്കേഷനെ രണ്ടു ഭാഗമായി ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അഥവാ വർഗ്ഗീകരിക്കണമെങ്കിൽ സ്പെസിഫിക്കേഷനിൽ രണ്ടു ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതി ഡിസ്ക്രിപ്റ്റീവ് പാർട്ടും ക്ലെയിമും ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിന് വിവിധങ്ങളായ ഉപവിഭാഗങ്ങളുണ്ട് നമ്മൾ നേരത്തെ കണ്ടു ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ആരംഭിക്കുന്നത് തലക്കെട്ടോടുകൂടിയാണെന്ന് അവിടെ ഒരു സംഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ക്ലെയിമ്സ് ഉണ്ടായിരിക്കുമെന്ന് കൂടാതെ കയ്യൊപ്പും ഉണ്ടായിരിക്കും ഇത് നമ്മൾ ഫോം നമ്പർ രണ്ടിൽ കണ്ടു കണ്ടുപിടിത്തത്തിൻറെ പശ്ചാത്തല വിവരണം ആരംഭിക്കുന്നത് കണ്ടുപിടിത്തത്തിൻറെ മേഖലയോടുകൂടിയാണ് കണ്ടുപിടിത്തത്തിൻറെ മേഖല അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യയുടെ മേഖല ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നമ്മളോട് പറയുന്നു അനുബന്ധ കലകളുടെ വിവരണം എന്ന പേരിൽ മറ്റൊരു തലക്കെട്ടും ഉണ്ടായിരിക്കാം കാരണം കണ്ടുപിടുത്തങ്ങൾ ഒരിക്കലും കേവലമായി സംഭവിക്കുന്നില്ല അതിന് എപ്പോഴും ഈ കണ്ടുപിടുത്തത്തെ സംബന്ധിച്ച് പ്രസക്തമായ ഒരു മുൻ അറിവും അല്ലെങ്കിൽ മുൻകലയും ഉണ്ടായിരിക്കും മുൻപ് നിലനിന്നിരുന്ന അറിവിനെയോ കലയെയോ കുറിച്ചുള്ള വിവരണം ആയി അത് വരാം മുൻകാല അറിവിനെയോ കലയെയോ കുറിച്ചുള്ള വിവരണം ഒരുപക്ഷേ ഒരു പൊതു പ്രസ്താവന ആയിരിക്കാം അല്ലെങ്കിൽ മുൻപത്തെ ഒരു പേറ്റന്റ് നമ്പറോ ശാസ്ത്രസംബന്ധിയായ ലേഖനമോ ഒരു ഗവേഷണ പ്രബന്ധമോ റഫർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രസ്താവന ആയിരിക്കാം അനുബന്ധ കലയെ കുറിച്ചുള്ള വിവരണം ഒരുപക്ഷേ റഫറൻസിലൂടെയോ അല്ലെങ്കിൽ ഇവിടെ വിവരിച്ചിരിക്കുന്നത് പോലെ ഒരു സാധാരണ രീതിയിലോ ആയിരിക്കാം പശ്ചാത്തല വിവരണം നമ്മൾ കണ്ടു ഇനി കണ്ടുപിടുത്തത്തിൻറെ സംഗ്രഹമാണ് ഏഴാമത്തെ ഖണ്ണിക വരെ വിവരിച്ചത് എല്ലാം നിങ്ങൾക്ക് യുഎസ് പേറ്റന്റ് നമ്പർ 635943 ൽ കാണാൻ സാധിക്കും നമ്മൾ പ്രയർ ആർട്ട് എന്ന് വിളിക്കുന്ന നേരത്തെ തന്നെ നിലവിലിരിക്കുന്ന ഒരു കണ്ടുപിടുത്തത്തിൻറെ ഡിസ്ക്രിപ്ഷൻ ആണത് പേറ്റന്റ് നമ്പർ 4600327 എന്നതും നേരത്തെ നിലനിന്നിരുന്ന ഒരു കണ്ടുപിടുത്തത്തിൻറെ ഡിസ്ക്രിപ്ഷൻ ആണ് പ്രത്യേക റഫറൻസ് ഇല്ലാതെതന്നെ നിങ്ങൾക്ക് വളരെ വിശാലമായ ഒരു പ്രയർ ആർട്ട് ഡിസ്ക്രിപ്ഷൻ നൽകുവാൻ സാധിക്കും അല്ലെങ്കിൽ നേരത്തെ നിലവിലിരിക്കുന്ന ഒരു പേറ്റന്റിൻറെ ഒരു പ്രത്യേക റഫറൻസോടുകൂടി പ്രയർ ആർട്ട് ഡിസ്ക്രിപ്ഷൻ നൽകുവാൻ സാധിക്കും ഏഴാമത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നത് കണ്ടുപിടുത്തത്തിന് മുൻപ് നിലനിന്നിരുന്ന പ്രയർ ആർട്ടിനെകുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനോടികൂടിയാണ് ഇനിയുള്ളത് ഇൻവെൻഷൻ സമ്മറി ആണ് ഈ പുതിയ കണ്ടുപിടിത്തത്തിലെ വിവിധങ്ങളായ വസ്തുതകളെ അവിടെ വിവരിക്കും മുൻപുണ്ടായിരുന്ന പ്രയർ ആർട്ടിൽ ഇല്ലാതിരുന്നതും എന്നാൽ പുതിയ കണ്ടുപിടുത്തം മൂലം ലഭ്യമായതുമായ പ്രയോജനങ്ങൾ വിശദമായി വിവരിക്കും ചുരുക്കത്തിൽ പ്രയർ ആർട്ടിൽ ഉണ്ടായിരുന്ന ചില പോരായ്മകളും ഈ പുതിയ കണ്ടുപിടിത്തത്തിലൂടെ അവയെ അതിജീവിച്ചു നേട്ടങ്ങൾ കൈവരിച്ച വിധവും ആണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ഇവിടെ കണ്ടുപിടുത്തത്തെ കുറിച്ചുള്ള വിവരണത്തിൽ കണ്ടുപിടുത്തത്തിനൻറെ ലക്ഷ്യങ്ങളും പരിഹരിച്ച പ്രശ്നങ്ങളും പ്രയർ ആർട്ടിൽ ഉണ്ടായിരുന്ന പോരായ്മകളും വിശദമായി വിവരിക്കും സംഗ്രഹം പൂർത്തിയാക്കിയതിനുശേഷം എന്തെങ്കിലും ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അവയും അവയെക്കുറിച്ചുള്ള വിവരണങ്ങളും ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചിത്രങ്ങൾ കണ്ടു ഒന്നാമത്തേത് നമ്മൾ വിവരിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നമ്മൾ വിവരിക്കുകയാണ് അത് ചിത്രങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് ചിത്രത്തിൽ കാണുന്നത് വാക്കുകളിൽ വിവരിക്കുകയാണ് ഇതിനെ പേർസ്പെക്ടീവ് വ്യൂ ഡ്രോയിങ് എന്നു പറയുന്നു പേർസ്പെക്ടീവ് വ്യൂ ഡ്രോയിങിൽ ക്രോസ് സെക്ഷൻ ഡ്രോയിംഗും സ്പ്ളിറ്റ് വ്യൂ ഡ്രോയിങും ഉണ്ടായിരിക്കും ഒരു പേറ്റന്റിൻറെ കൂടെ പലതരംഡ്രോയിങ്സ് ഉണ്ടാകാം ഇവിടെ നമുക്കുള്ളത് പേർസ്പെക്ടീവ് വ്യൂ ഡ്രോയിങ് ആണ് ഡ്രോയിങിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനെ തുടർന്ന് അടുത്ത ഹെഡിങ് ഡ്രോയിങിനെക്കുറിച്ചുള്ള വിശദമായ വിവരണം ആയിരിക്കും വിശദമായ വിവരണത്തിൽ പുതുതായി കണ്ടുപിടിച്ച ഉപകരണത്തെ കുറിച്ച് അതെങ്ങനെയാണ് നിർമ്മിച്ചതെന്നും അതിൻറെ ഭാഗങ്ങൾ ഏതൊക്കെയെന്നും വിവിധ ഭാഗങ്ങൾ പരസ്പരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും വിവരിച്ചിരിക്കുന്നു ഇതാണ് വിശദമായ വിവരണം അഥവാ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തിയ ചില നമ്പറുകൾ നിങ്ങൾ കാണും നമ്പർ 100 കറക്ഷൻ മാർക്ക് 102 ടൂബുലർ ബോഡി വീണ്ടും നിങ്ങൾ ഡ്രോയിങിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ എല്ലാ ഭാഗങ്ങളും ആ ഡ്രോയിങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം എന്നാൽ ഡ്രോയിങിൽ അവയൊന്നും വിശദീകരിക്കുന്നില്ല ഡ്രോയിങിൽ പ്രസ്താവനകളോ വിശദീകരണങ്ങളോ എഴുതാൻ അനുവാദമില്ല നമ്പറുകൾ മാത്രമേ ഡ്രോയിങിൽ എഴുതാൻ പാടുള്ളൂ എന്നാൽ അതൊരു ഫ്ലോചാർട്ട് ആണെങ്കിൽ അക്ഷരങ്ങൾ എഴുതാം നിയമാവലി നമ്പർ പതിമൂന്നിൽ എഴുതിയിട്ടുണ്ട് ഫ്ലോചാർട്ടിലോ ഫ്ലോ ഡയഗ്രത്തിലോ മാത്രമേ വാക്കുകൾ എഴുതുവാൻ അനുവദിക്കുന്നുള്ളൂ എന്ന് അല്ലാത്തപക്ഷം നമ്പറുകൾ മാത്രമേ കാണൂ ഈ നമ്പറുകൾ അവിടെ ഉള്ളതുകൊണ്ട് അവയുടെ വിശദമായ വിവരണം തുടർന്നു വരുന്നതാണ് ചിത്രങ്ങളിൽ നമ്പറുകൾ പരാമർശിക്കുക മാത്രമേ ചെയ്യൂ ടൂബുലർ ബോഡി നമ്പർ 102 ആണ് എന്ന് എഴുതിയിരിക്കുന്നു എവിടെയെല്ലാം ടൂബുലർ ബോഡി എന്ന് ആവർത്തിക്കേണ്ടതുണ്ടോ അവിടെയെല്ലാം 102 എന്ന് മാത്രമേ എഴുതൂ ഇൻങ്ക് കാറ്റ്റിഡ്ജിൻറെ നമ്പർ 104 ആണ് പെൻ ടിപ്പിൻറെ നമ്പർ 114 അങ്ങനെ പോകുന്നു ഈ നമ്പറുകൾ ഡിസ്ക്രിപ്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ചിത്രത്തിലേക്ക് പോയി ചിത്രത്തിലെ ഏത് ഭാഗമാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ നൽകിയിരിക്കുന്ന ചിത്രത്തിലെ വിവിധ ഭാഗങ്ങളെ പരാമർശിക്കുന്നു എന്ന് ഉദാഹരണത്തിൽ നമ്മൾ കണ്ടു നമ്പർ 102 എന്ന് പറയുന്നത് ടൂബുലർ ബോഡി ആണെന്ന് ഇതാണ് ചിത്രത്തിൻറെ വിശദീകരണം ഈ കണ്ടുപിടുത്തം ഒരു യന്ത്രം മെക്കാനിക്കൽ ഡിവൈസ് ആയതിനാൽ അതിന് ചിത്രീകരണത്തിൻറെയോ ഉദാഹരണത്തിൻറെയോ ആവശ്യമില്ല കാരണം ചിത്രത്തിൻറെ വിശദീകരണം തന്നെ അതിനെ കുറിച്ച് വളരെ വിശാലമായ ഒരു വിവരണം നൽകുന്നു എന്നാൽ അതൊരു രാസസംയുക്തത്തിൻറെ നിർമ്മാണം ആണെങ്കിൽ ഇതിൽ ഒന്നും രണ്ടും ഉദാഹരണങ്ങളിൽ നിങ്ങൾ കാണുന്നതുപോലെ എങ്ങനെയാണ് നിർമിക്കുന്നതെന്നും അത് നിർമ്മിക്കാൻ ഉള്ള വിവിധ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അവ ഏതൊക്കെ എന്നും ഏതെങ്കിലും ഒരു മാർഗത്തിന് മറ്റു മാർഗത്തിനേകാൾ കൂടുതൽ മേന്മ ഉണ്ടെങ്കിൽ അതെങ്ങിനെ എന്നുമെല്ലാം വിവരിക്കുന്നു ഒരു സംഗതി ഉദാഹരണത്തിന് ഒരു രാസസംയുക്തം ഉണ്ടാക്കുന്നതിന് പ്രത്യേക സമ്പ്രദായമോ സംവിധാനമോ ഉണ്ടെങ്കിൽ മാത്രമാണ് ചിത്രീകരണത്തിൻറെേയോ ഉദാഹരണത്തിൻറെേയോ എല്ലാം ആവശ്യം വരുന്നത് നമ്മൾ എടുത്ത ഉദാഹരണത്തിൽ അതിൻറെ ആവശ്യം വരുന്നില്ല കാരണം അതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് അതിൻറെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ വിശാലമായ വിവരണം നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനം നമ്മൾ ക്ലെയിംസ് എഴുതുന്നു യുഎസ്സ് പേറ്റന്റിൽ ക്ലെയിംസ് ആരംഭിക്കുന്നത് വാട്ടീസ് ക്ലെയിംഡ് ഈസ് എന്ന പ്രസ്താവനയോടെയാണ് ഇന്ത്യയിലാണെങ്കിൽ ആ പ്രസ്താവന ഐ ക്ലെയിം അല്ലെങ്കിൽ വി ക്ലെയിം എന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത് എന്താണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ക്ലെയിം ചെയ്യുന്നത് എന്താണെങ്കിൽ കറക്ഷൻ മാർക്കറോടികൂടിയ ഒരു കോമ്പിനേഷൻ പേനയാണ് ഒരു വാചകത്തിൻറെ ഇടയിൽ കോളൻ ഇടുന്ന ഒരു രീതിയുണ്ട് ഒരു വാചകത്തെ തന്നെ പല ഭാഗങ്ങളായി തിരിക്കാനാണ് കോളൻ ഉപയോഗിക്കുന്നത് സെമി കോളനിൽ അവസാനിക്കുന്ന ധാരാളം ക്ളോസുകൾ നിങ്ങൾ കാണുന്നുണ്ട് ഏറ്റവും അവസാനം ക്ലോസ് ഫുൾ സ്റ്റോപ്പിൽ ആണ് അവസാനിക്കുന്നത് സാധാരണ പതിവനുസരിച്ച് കണ്ടുപിടിത്തം എത്ര സങ്കീർണമാണെങ്കിലും ഒറ്റവാചകത്തിൽ ആണ് നമ്മൾ ക്ലെയിം എഴുതാറുള്ളത് അതാണ് ലോക നടപ്പ് ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളും ഈ രീതിയാണ് പിന്തുടരുന്നത് അതനുസരിച്ച് ഒരൊറ്റ വാചകത്തിൽ ആണ് ക്ലെയിം എഴുതുന്നത് കണ്ടുപിടിത്തത്തിന് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധിതമാണ് എങ്കിൽ അത് മനസ്സിലാക്കാൻ ആളുകൾക്ക് സമയമെടുക്കും അതുകൊണ്ടാണ് നമ്മൾ കോളനുകളും സെമി കോളനുകളും ഉപയോഗിച്ച് ഈ വാചകത്തിൽ പല ക്ലോസുകൾ അഥവാ ഉപവാക്യങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻറെ പേറ്റന്റ് അപേക്ഷയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻറെ ഘടന മനസ്സിലായി നമുക്ക് ഒരു ഇന്ത്യൻ അപേക്ഷ പരിശോധിക്കാം ദാ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഫോം നമ്പർ 2 കാണപ്പെടുക ഒരു പ്രത്യേക തീയതിയിൽ ഭേദഗതി വരുത്തിയ അപേക്ഷ ഫോമാണിത് ഇതൊരു അപൂർണ്ണമായ അപേക്ഷ ഫോമാണ് ഇത് ഉപയോഗിക്കുന്ന ആൾ അയാൾക്ക് പ്രസക്തമല്ലാത്ത ഭാഗം വെട്ടി കളയുന്നു ഇതിൽ ഒരു തലക്കെട്ടുണ്ട് തലക്കെട്ടിലും ഭേദഗതി വരുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് വളരെ കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഉണ്ടായിരുന്ന തലക്കെട്ട് വെട്ടിക്കളഞ്ഞ് പുതിയതൊരെണ്ണം എഴുതിയിരിക്കുന്നു അപേക്ഷകൻറെ പേരുമുണ്ട് ഇത് ഒരു ഉദാഹരണമായി എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ബജാജും ടിവിഎസും തമ്മിലുള്ള ഒരു തർക്കത്തിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഇനിയും വിധിതീർപ്പായിട്ടില്ലാത്ത ഒന്നാണിത് ഇത് ആരംഭിക്കുന്നത് തന്നെ ഡിസ്ക്രിപ്ഷൻനോടുകൂടിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻറെ പേറ്റന്റ് അപേക്ഷയിൽ കണ്ടത് പോലുള്ള തലക്കെട്ട് ഇവിടെ നമ്മൾ കാണുന്നില്ല കണ്ടുപിടിത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിവരണത്തോടെ ആണിത് തുടങ്ങുന്നത് പ്രത്യേക സബ് ഹെഡിംഗ്സ് ഒന്നുമില്ലെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഇത് വിവരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും വിവരണം ഡിസ്ക്രിപ്ഷൻ ആരംഭിക്കുന്നത് ഈ കണ്ടുപിടിത്തം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പേറ്റന്റിലേക്കുള്ള ക്രോസ് റഫറൻസും നമുക്ക് അവിടെ കാണാം 4534322 എന്ന നമ്പർ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു കാണും നമ്മൾ മുകളിൽ കാണുന്ന ഒന്നാമത്തെ ഫിഗറർ അതിൽ ഡ്രോയിംഗിൻറെ ചെറിയ വിശദീകരണം ആണ് താഴെയുള്ളത് രണ്ടാമത്തെ ഫിഗർ അതിൽ ഡ്രോയിംഗിൻറെ വിശാലമായ വിവരണം ലഭിക്കുന്നു ബ്രാക്കറ്റിൽ നമ്മൾ കാണുന്നത് അതിൻറെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ ഡ്രോയിങ് ഇല്ല ഡ്രോയിങ് ഒരു വ്യത്യസ്തമായ ഡോക്യുമെൻറാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വിവിധ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്പർ 21 ഉം 22 ഉം സ്പാർക്ക് പ്ളഗ്സാണ് നമ്പർ 23 സ്ലീവ് അങ്ങനെ പോകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ചിത്രം കിട്ടിക്കാണും പേറ്റന്റിലുള്ളതു പോലെ പ്രത്യേകമായ സബ് ഹെഡിങ്സ് ഇല്ലാ എന്നു വരികിലും ഇന്ത്യയുടെ അപേക്ഷ ഫോമും അതേ രീതിയാണ് തുടരുന്നത് അത് ഫിഗർ 1 പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണു ഡ്രോയിംഗിൻറെ വിശാലമായ വിവരണം അത് ഒരേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു പബ്ലിക് ഡോക്യുമെൻറാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേറ്റന്റ് ഓഫീസിൻറെ വെബ്സൈറ്റിൽ പോയി അത് ഡൌൺലോഡ് ചെയ്തു കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഒരു പട്ടികയിൽ തയ്യാറാക്കിയ പരിശോധനാഫലങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും അവസാനം ക്ളെയിംസ് വരുന്നു വി ക്ളെയിം എന്നാണ് തുടങ്ങുന്നത് ഇതാണ് ഇന്ത്യയിലെ പേറ്റന്റ് അപേക്ഷയ്ക്കുള്ള രീതികളും നടപടിക്രമങ്ങളും ഇവിടെ ഇന്ത്യയിൽ ക്ളെയിംസിൻറെ ഉപവിഭാഗങ്ങൾക്ക് നമ്പറുകൾ കൊടുക്കണം സ്പാർക്ക് പ്ളഗ്സ് എന്നതാണ് ക്ളെയിം നമ്പർ 1 ക്ളെയിം നമ്പർ 2 എന്നത് ക്ളെയിം നമ്പർ ഒന്നിനെ ആശ്രയിച്ചാണിരിക്കുന്നത് അതുകൊണ്ട് അത് നംബർ ഒന്നിനെ റഫർ ചെയ്യുന്നു ഇതുപോലെതന്നെ എന്നെ നമ്പർ 3 ഉം നമ്പർ 4 ഉം ആശ്രിതരാണ് ക്ളെയിം നമ്പർ അഞ്ചും മറ്റൊന്നിനെ ആശ്രയിച്ചാണിരിക്കുന്നത് കാരണം അതിൽ അവകാശപ്പെടുന്ന ക്ളെയിം മുകളിലെ നമ്പറുകളിലും പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ക്ളെയിം നമ്പർ ആറ് ഒരു സ്വതന്ത്രമായ മറ്റ് നമ്പറുകളോട് ബന്ധമില്ലാത്ത ക്ളെയിമാണ് ഏഴാമത്തെ ക്ളെയിമിനെ നമ്മൾ ഓമ്നിബസ് ക്ളെയിം എന്ന് വിളിക്കുന്നു ഓമ്നിബസ് ക്ളെയിമുകൾ നേരത്തെ അനുവദിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അവ അനുവദിക്കുന്നില്ല പേറ്റൻറ് ഓഫീസ് ഉപയോഗിക്കുന്ന മാനുവൽ പ്രകാരം ഓമ്നിബസ് ക്ളെയിമുകൾ അനുവദിക്കുന്നില്ല ഓമ്നിബസ് ക്ളെയിമുകൾ അവകാശപ്പെടുന്നത് എന്തെന്നാൽ ഡിസ്ക്രിപ്ഷനിലും ഡ്രോയിംഗിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പേറ്റന്റ് ക്ളെയിമിൻറെ പരിധിയിൽ വരുന്നു എന്നാണ് ഈ ക്ളെയിം സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഏറ്റവും അവസാനം വരുന്നത് കൈയ്യൊപ്പാണ് കണ്ടുപിടുത്തം നടത്തിയ ആൾ തന്നെയാണ് ഫോം പൂരിപ്പിക്കുന്നത് എങ്കിൽ അദ്ദേഹം ഒപ്പിടുന്നു അല്ലാത്തപക്ഷം ഏജന്റ് ആയിരിക്കും ഒപ്പിടുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഫോം രണ്ട് അവസാനിക്കുന്നത് തീയതിയോടും ഒപ്പോടും കൂടിയാണ്